നോക്കൂ ഇത് ചർച്ചയുടെ രണ്ടാം സെഷൻ ആണ്വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ദയവായി കൈ ഉയർത്തി നിങ്ങളുടെ ചോദ്യം ചോദിക്കുക ആഴമില്ലാത്ത എലിപ്റ്റിക്കൽ എഡ്ജ് ക്രാക്കിന്റെ കാര്യത്തിൽ ചെറിയ അക്ഷത്തിന്റെ അഗ്രഭാഗത്തുള്ള സമ്മർദ്ദ തീവ്രത ഘടകം പ്രധാന അച്ചുതണ്ടിന്റെ സമ്മർദ്ദ തീവ്രത ഘടകത്തേക്കാൾ കൂടുതലാണ് ഇത് നമ്മുടെ അവബോധത്തിന് വിരുദ്ധമാണ് ഭൌതികശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിക്കാനാകുമോ നോക്കൂ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവബോധം അവബോധം എന്നത് മനസ്സിനെയോ ഇന്ദ്രിയങ്ങൾക്കോ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ആശങ്കയാണ് അല്ലെങ്കിൽ അത് ഉടനടി ഉള്ള ഉൾക്കാഴ്ചയാണ് അതിനാൽ അതിനർത്ഥം നിങ്ങളുടെ മനസ്സ് എങ്ങനെ സ്ഥിതിചെയ്യുന്നുവെന്നത് നിങ്ങൾ പ്രതികരിക്കാൻ പോകുന്ന രീതിയാണ് കട്ടിയുള്ള വിള്ളലിലൂടെ നിങ്ങൾ എല്ലായ്പ്പോഴും കാണുന്നു അതിനാൽ കട്ടിയുള്ള വിള്ളലിലൂടെ നിങ്ങൾ കാണുമ്പോൾ വിള്ളൽ ഇതുപോലെ നീണ്ടിരിക്കുന്നതായി നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഫ്രണ്ട് ഉണ്ട് കാരണം ഇത് കട്ടിയുള്ള വിള്ളലാണ് ഈ ക്രാക്ക് ഫ്രണ്ട് മുന്നേറുന്നു അതിനാൽ ഒരു ഉപരിതല വിള്ളലിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും വിള്ളൽ ഉപരിതലത്തിൽ നിന്ന് ഉത്ഭവിച്ച് specimen ലേക്ക് തുളച്ചുകയറുന്നു ഇത് ഒരു അർദ്ധ ദീർഘവൃത്തമായും മറ്റും മാതൃകയാക്കാമെന്ന് നമ്മൾ കണ്ടു ബ്രേക്ക് മാനദണ്ഡത്തിന് മുമ്പായി ചോർച്ച നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഉപരിതല വിള്ളൽ ഉണ്ട് ഈ ആഴം ഇത്ര ഉയർന്നതല്ലെന്ന് സങ്കൽപ്പിക്കുക എന്നാൽ ഇത് ഇപ്പോഴും വളരെ ചെറുതാണ് നിങ്ങൾക്ക് ഉപരിതലത്തിൽ ഒരു സ്ക്രാച്ച് മാത്രമേ ഉണ്ടാകൂ അതിനാൽ നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പ്രധാന അച്ചുതണ്ടിന്റെ അഗ്രം ഉള്ളപ്പോൾ നിങ്ങൾ പ്രധാന അക്ഷത്തിന്റെ അഗ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആ സൈറ്റിൽ ആഴമില്ല ലളിതമായ ഒരു സ്ക്രാച്ച് പോലെ ഇത് നല്ലതാണ് വാസ്തവത്തിൽ വിള്ളൽ ആ ദിശയിലേക്ക് നീളരുത് അപ്പോൾ പോറലുകൾ പോലും വളരെ അപകടകരമാകും corrosion ഉൽപ്പന്നങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു പോറൽ ഉണ്ടാകുമ്പോൾ വിള്ളൽ മെറ്റീരിയലിലേക്ക് തുളച്ചുകയറുന്നു അതിനാൽ എന്താണ് ക്രാക്ക് ഫ്രണ്ട് എന്ന് നിങ്ങൾ നോക്കണം അത് വളരെ പ്രധാനമാണെന്ന് കാണുക അതിനാൽ ഒരു ഉപരിതല വിള്ളൽ വരുമ്പോൾ ഇത് ഒരു ക്രാക്ക് ഫ്രണ്ടായി മാറുന്നു നമ്മൾ കണ്ടത് വിള്ളൽ മുന്നേറുകയും അത് മറ്റ് അതിർത്തിയിൽ സ്പർശിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വശങ്ങളിൽ ഒരു ക്രാക്ക് ഫ്രണ്ട് ഉണ്ടാകും ഈ ക്രാക്ക് ഫ്രണ്ട് ഇരുവശത്തും നീങ്ങുന്നു കാരണം അവബോധം പരാജയപ്പെടുന്നിടത്തെല്ലാം നിങ്ങളുടെ ഗണിതശാസ്ത്രം വന്ന് സ്വയം രക്ഷപ്പെടുത്തണമെന്ന് നിങ്ങൾക്കറിയാം വാസ്തവത്തിൽ നിങ്ങൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ബെൻസീൻ ring നിർണ്ണയിച്ച വ്യക്തിക്ക് പാമ്പ് അതിന്റെ വാൽ കടിക്കുന്നതായി ഒരു സ്വപ്നം ഉണ്ടായി തുടർന്ന് ബെൻസീൻ ഘടന എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം ആവിഷ്കരിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ആശയം മറ്റ് നിരീക്ഷണങ്ങൾ വഴി പരിശോധിച്ചു ആളുകൾ ചില അവബോധത്തോടെയാണ് ആരംഭിക്കുന്നത് അവബോധം സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് കാണേണ്ടി വരും അത് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു ഏതു വ്യക്തിയുടെ മനസ്സാണോ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ പുതിയ ആശയങ്ങൾ ലഭിക്കുകയുള്ളു നിങ്ങൾ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്കോമ ബ്രിഡ്ജ് ഉണ്ട് അത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജായിരുന്നു അക്കാലത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഡിസൈൻ രീതിശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ആളുകൾ ഇത് നിർമ്മിച്ചത് എന്നാൽ അത് അക്രമാസക്തമായി സ്പന്ദിക്കുകയും തകരുകയും ചെയ്തു അനുരണനം ഇത്തരത്തിലുള്ള ഫലമുണ്ടാക്കുമെന്ന് ആളുകൾക്ക് അറിയില്ല അതിനാൽ നിങ്ങൾ നോക്കേണ്ടത് ഭൌതികശാസ്ത്ര വീക്ഷണകോണിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രധാന അക്ഷം ഉള്ളപ്പോൾ ഞാൻ നോക്കി ഇത് ഒരു സ്ക്രാച്ച് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ക്രാക്ക് ഫ്രണ്ട് ഇല്ല ക്രാക്ക് ഫ്രണ്ട് മോഡലിലേക്ക് തുളച്ചുകയറുന്നു നമ്മളുടെ ആശയം യഥാർത്ഥത്ത നമ്മൾ അളക്കുന്നതുമായി യോജിച്ചു പോകുന്നില്ലെങ്കിൽ തുടർന്ന് നമ്മൾ തിരിച്ചുപോയി നമ്മളുടെ ആശയം പരിഷ്ക്കരിക്കേണ്ടതുണ്ട് ഒരു ഉപരിതല വിള്ളലിന് നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വ്യതിയാനം വികസിപ്പിച്ചതെന്ന് വീണ്ടും നോക്കാം ഗണിതശാസ്ത്രപരമായ ഗണ്യമായ പുരോഗതി ഉണ്ടായി നമ്മൾ ഇതിനകം അത് പരിശോധിച്ചു അത് വീണ്ടും നോക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല അതിനാൽ 1950 ൽ ഗ്രീനും സ്നെഡണും embedded elliptical crack ന്റെ crack opening displacement കണ്ടു പിടിച്ചു അതിനാൽ എനിക്ക് ഈ പദപ്രയോഗം v equal to v naught multiplied by 1 minus x square by a square minus y square by c square whole power half എന്ന് ലഭിച്ചു അതിനാൽ ഈ പദപ്രയോഗത്തെ അടിസ്ഥാനമാക്കി ഇത് 1950 ലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് ഓർക്കുക 1962 ൽ എലിപ്റ്റിക്കൽ ക്രാക്കിന്റെ പരിധിക്കു ചുറ്റുമുള്ള ഏത് point ലും സമ്മർദ്ദ തീവ്രത ഘടകത്തിന് കൃത്യമായ ഒരു പദപ്രയോഗം derive ചെയ്യാൻ ഇർവിൻ strain energy വാദങ്ങൾ ഉപയോഗിച്ചു അതിനാൽ ആദ്യ ഫലം embedded എലിപ്റ്റിക്കൽ ക്രാക്കിനു വേണ്ടി ആയിരുന്നു അവർ കണ്ടെത്തിയതെന്താണ് ക്രാക്ക് ഫ്രണ്ടിനൊപ്പം സമ്മർദ്ദ തീവ്രത ഘടകം വ്യത്യാസപ്പെടുന്നു നേരത്തെ ഉള്ള ഫലം ഒരു വൃത്താകൃതിയിലുള്ള flaw ആയിരുന്നു വൃത്താകൃതിയിലുള്ള flaw സമ്മർദ്ദ തീവ്രത ഘടകം സ്ഥിരമായി തുടരുന്നു അതിനാൽ കട്ടിയുള്ള വിള്ളലിന്റെ കാര്യത്തിൽ സമ്മർദ്ദ തീവ്രത ഘടകം സ്ഥിരമായി തുടരുന്നു അതിനാൽ ഈ അപാകത എലിപ്റ്റിക്കൽ സ്വഭാവത്തിലാണെന്ന് അവർ കണ്ടെത്തിയ ആദ്യ സംഭവമാണിത് തീറ്റയുടെ ഒരു പ്രവർത്തനമെന്ന നിലയിൽ സമ്മർദ്ദ തീവ്രത ഘടകത്തിന് നിങ്ങൾക്ക് ഒരു പദപ്രയോഗമുണ്ട് അതിനാൽ ഇത് ഓരോ പോയിന്റിലും വ്യത്യാസപ്പെടുന്നു ഒരു ദീർഘവൃത്താകൃതിയിലുള്ള വിള്ളൽ വൃത്താകൃതിയിലുള്ള വിള്ളലായി വളരുമെന്ന് നമ്മൾ പരിശോധിച്ചു ആളുകൾ ഈ solution വളരെ ശ്രദ്ധാപൂർവ്വം നോക്കി I 2 equal to pi by 2 എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച എക്സ്പ്രഷൻ എന്തുതന്നെ ആയാലും ഒരു ചില്ലിക്കാശിന്റെ ആകൃതിയിലുള്ള വിള്ളലിന് SIF ആയി ചുരുങ്ങി അതിനാൽ നിങ്ങൾക്ക് ഒരു പൊതു പരിഹാരമുണ്ട് നിങ്ങൾ ഇത് ലളിതമാക്കുന്നു ഇത് ഒരു പ്രത്യേക solution ലേക്ക് ചുരുക്കുന്നു ഒരു എലിപ്റ്റിക്കൽ വിള്ളൽ മുതൽ വൃത്താകൃതിയിലുള്ള വിള്ളൽ വരെ അവർ അതിനെ നോക്കി c യെക്കാൾ a വളരെ കുറവായിരിക്കുമ്പോൾ I 2 1 ആയിത്തീരുകയും 2a നീളമുള്ള two dimensional വിള്ളലിനായി ഇത് SIF ലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു അതിനാൽ ഇത് എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച ഫലം എന്തുതന്നെ ആയാലും ആന്തരികമായി സ്ഥിരത പുലർത്തുന്നു ഗുരുതരമായ ഗണിതശാസ്ത്ര പിശകുകളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല അത് പരീക്ഷണാത്മക നിരീക്ഷണവും പിന്തുണയ്ക്കുന്നു വിവിധ ജ്യാമിതികൾ സ്ഥിതിവിവരക്കണക്കുകൾ എന്നിവയ്ക്കുള്ള സമ്മർദ്ദ തീവ്രത ഘടകവും നമ്മൾ പരിശോധിച്ചു embedded എലിപ്റ്റിക്കൽ ന്യൂനതയോടെ നമ്മൾ ആരംഭിച്ചു Ellipse ന്റെ അതിർത്തിയിലുള്ള പോയിന്റ് തീറ്റ എങ്ങനെ കണ്ടെത്താം എന്നതിന്റെ നിർവചനവും നമ്മൾ പരിശോധിച്ചു ഇതിൽ നിന്ന് നമ്മൾ ഒരു ഉപരിതല വിള്ളലിലേക്ക് ബിരുദം നേടി അവിടെ നിങ്ങൾ അതിനെ ഒരു എഡ്ജ് ക്രാക്കുമായി താരതമ്യം ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു factor 1 12 ചിത്രത്തിലേക്ക് വരുന്നു

പിന്നെ എന്താണ് നമ്മൾ നോക്കിയത് നമ്മൾ ഒരു കോണിൽ വിള്ളലും നോക്കി അതിനാൽ ഈ ആരംഭ സ്ഥാനത്ത് നിന്ന് മറ്റ് പല ക്രാക്ക് ജ്യാമിതികൾക്കും ആളുകൾ പരിഹാരം കണ്ടെത്തി അവർ എത്തിച്ചേർന്ന നിഗമനത്തെ പരീക്ഷണാത്മക നിരീക്ഷണം പിന്തുണയ്ക്കുന്നു സമാന്തര സംഖ്യാ ശ്രമവും ഉണ്ടായിരുന്നു എന്താണ് numerical effort ഉപരിതല വിള്ളലുകളുടെ നേരിട്ടുള്ള വിശകലനം നമ്മൾ കണ്ടു ഈ figure നെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും ഡെപ്ത് a നീളം 2c എന്നിവയുള്ള ഒരു വിള്ളൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് a by B യുടെ അനുപാതവും ഉണ്ട് a by B ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗ്രാഫ് എന്താണ് കാണിക്കുന്നത് എഡ്ജ് ക്രാക്ക് മൂല്യത്തിലെത്താൻ ഈ ഘട്ടത്തിൽ സമ്മർദ്ദ തീവ്രത ഘടകത്തിനായി മാതൃകയിലെ വിള്ളലിന്റെ ആഴം വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നീളമുള്ള ഉപരിതല ദൈർഘ്യം ആവശ്യമാണ് അപ്പോൾ മാത്രമേ ഇത് മാറുകയുള്ളൂ ഈ ഭാഗമാണ് നിങ്ങൾക്ക് വിള്ളൽ ഉള്ള ഭാഗത്തിന് SIF ഉള്ളത് നിങ്ങൾക്ക് എഡ്ജ് ക്രാക്ക് മൂല്യം ഉണ്ട് ഈ അനുപാതം ഇവിടെ 1 ആണ് അതിനാൽ ഇത് നേടുന്നതിന് നിങ്ങൾക്ക് ഒരു നീണ്ട ഉപരിതല ദൈർഘ്യം ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് പരീക്ഷണത്തിൽ നിന്ന് തെളിവുകൾ ഉണ്ട് പ്രത്യേക കേസുകളിലേക്കുള്ള solution നിങ്ങൾ ചുരുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിച്ചു എഡ്ജ് ക്രാക്കുമായി പൊരുത്തപ്പെടുന്ന സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ലഭിക്കാൻ നിങ്ങൾക്ക് ഒരു നീണ്ട ഉപരിതല നീളം ആവശ്യമാണെന്ന് പറയുന്ന ഒരു സംഖ്യാ ഫലവും നിങ്ങൾക്കുണ്ട് ഈ ഫലങ്ങളെല്ലാം കാണിക്കുന്നത് വിള്ളൽ മാതൃകയിലേക്ക് മാത്രം തുളച്ചുകയറും ഇത് ഇതുപോലെ പോകില്ല ക്രാക്ക് ഫ്രണ്ട് ഇല്ല ഇത് നിങ്ങൾ കാണുന്നത് ഒരു ഉപരിതല സ്ക്രാച്ച് മാത്രമാണ് ഇലാസ്റ്റിക് ഫീൽഡിന് ബാധകമായ yield മാനദണ്ഡങ്ങളിലൂടെ നേടിയതിനേക്കാൾ ഇർവിന്റെ മാതൃകയിലൂടെ ലഭിച്ച പ്ലാസ്റ്റിക് സോൺ വലുപ്പം വളരെ വലുതാണ് നമ്മൾ തിരിച്ചുപോയി ഇർവിന്റെ മോഡൽ Irwin's Model വികസിപ്പിച്ചതെങ്ങനെയെന്ന് നോക്കാം എന്ന് ഞാൻ കരുതുന്നു അക്കാലത്ത് നമ്മൾ പറഞ്ഞത് പ്ലാസ്റ്റിക് രൂപഭേദം മൂലം ലോഡ് പുനർവിതരണം ചെയ്യുന്നതായി പരിഗണിക്കുന്ന ലളിതമായ ഒരു മാതൃകയാണ് ഇർവിൻ അവതരിപ്പിച്ചത് ലളിതമായ കേസിൽ നിങ്ങൾ എന്തു ചെയ്തു നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പ് ഉണ്ട് നിങ്ങളുടെ വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ നൽകിയ സ്ട്രെസ് ഫീൽഡ് നിങ്ങൾക്ക് ഉണ്ട് സിഗ്മ y യുടെ മൂല്യം ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു ലളിതമായ മാതൃകയിൽ നമ്മൾ എന്താണ് ചെയ്തത് Yield criteria യിലെത്തുമ്പോൾ നമ്മൾ ഈ ലൈൻ മുറിച്ചുമാറ്റുന്നു നിങ്ങൾ ട്രെസ്ക yield മാനദണ്ഡം പ്രയോഗിക്കുകയാണെങ്കിൽ അത് സിഗ്മ ys ൽ സംഭവിക്കുന്നു നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് സ്ഥിതിചെയ്യുന്നു നമ്മൾ പറഞ്ഞു ഇത് വിള്ളലിന് മുമ്പുള്ള പ്ലാസ്റ്റിക് സോണിന്റെ നീളമായിരിക്കണം എന്ന് ഈ ലോഡിന് എന്ത് സംഭവിക്കും യഥാർത്ഥത്തിൽ ഇത് വളരെയധികം ലോഡിനെ പിന്തുണച്ചിരുന്നുവെന്ന് solution പറയുന്നു യഥാർത്ഥ പ്രയോഗത്തിൽ മെറ്റീരിയലിന് yield ശക്തിയേക്കാൾ ഭാരം നിലനിർത്താൻ കഴിയാത്തതിനാൽ ഈ സ്ഥാനത്ത് ഈ വക്രം മുറിക്കുന്നത് ശരിയായ സമീപനമായിരിക്കില്ലെന്ന് നിങ്ങൾ പറയുന്നു അതിനാൽ ഇർവിൻ വാദിച്ചത് നിങ്ങൾ ഈ ലോഡിംഗിന്റെ redistribution ചെയ്യണം എന്നാണ് ഇത് പ്ലാസ്റ്റിക് സോണിന്റെ നീളം കൂട്ടുന്നതിനുള്ള ആകെ തുക ആണ് ക്രാക്ക് ആക്സിസിൽ അദ്ദേഹം ഇത് ചെയ്തു ഈ പ്രദേശം A 2 എങ്ങനെ ലഭിച്ചു അസന്തുലിതമായ ലോഡ് എന്തുതന്നെ ആയാലും ഈ പ്രദേശവും ഈ പ്രദേശവും പൊരുത്തപ്പെടുന്ന തരത്തിലാണ് ഇത് ലഭിച്ചത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയും ലളിതമായ വിശകലനത്തേക്കാൾ വളരെ കൂടുതലാണ് പ്ലാസ്റ്റിക് സോണിന്റെ നീളം ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതുണ്ട് പ്ലാസ്റ്റിക് സോണിന്റെ നീളം കണക്കാക്കിയ ഒരേയൊരു വ്യക്തി ഇർവിൻ മാത്രമായിരുന്നോ എന്ന് കാരണം ഇവയെല്ലാം മോഡലുകളാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് ഇർവിന് ലഭിച്ച results സാഹിത്യത്തിലെ മറ്റ് solution നുമായി യുക്തിസഹമായി താരതമ്യം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്ക് മറ്റൊരു സമീപനവുമുണ്ടായിരുന്നു മറ്റൊരു പ്രശ്നം സൃഷ്ടിച്ച ഡഗ്ഡെയ്ലാണ് ഇത് ചെയ്തത് അദ്ദേഹം വിള്ളൽ ടിപ്പിന് മുന്നിൽ പ്ലാസ്റ്റിക് സോൺ ഉണ്ടെന്ന് സങ്കൽപ്പിച്ചു K സിഗ്മ എന്ന applied ലോഡുകൾ കാരണം സമ്മർദ്ദ തീവ്രത ഘടകം എന്താണെന്ന രീതിയിൽ അദ്ദേഹം പ്രശ്നം വീണ്ടും രൂപപ്പെടുത്തി Yield ശക്തിയാൽ ചുരുങ്ങുന്ന ഒരു ഏകീകൃത മേഖല നിങ്ങൾക്കുണ്ടെന്ന് അദ്ദേഹം സങ്കൽപ്പിച്ചു ഈ സമ്മർദ്ദ തീവ്രത ഘടകം ഇവ രണ്ടും കൂട്ടുമ്പോൾ 0 കിട്ടണം അതിനാൽ പ്ലാസ്റ്റിക് സോണിന്റെ ദൈർഘ്യം കണക്കാക്കുന്നതിന് അദ്ദേഹം അടിസ്ഥാനപരമായി വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചു രണ്ട് പ്രശ്നങ്ങളുടെ സൂപ്പർപോസിഷൻ അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം പ്ലാസ്റ്റിക് സോണിന്റെ നീളം നേടി K സിഗ്മ എന്ന് അദ്ദേഹം എടുത്തത് യഥാർത്ഥ വിള്ളൽ നീളം a plus അനുമാനിച്ച പ്ലാസ്റ്റിക് സോൺ നീളം ഡെൽറ്റ എന്നിവയല്ലാതെ മറ്റൊന്നുമല്ല നടപടിക്രമം തികച്ചും വ്യത്യസ്തമാണ് അദ്ദേഹത്തിന് ലഭിച്ച ഫലം എന്താണ് ഡഗ്ഡെയ്ലിന്റെ മോഡലിൽ നിന്നും ഇർവിന്റെ മോഡലിൽ നിന്നും പ്ലാസ്റ്റിക് സോൺ ദൈർഘ്യം താരതമ്യം ചെയ്യാമോ എഞ്ചിനീയറിംഗ് കാഴ്ചപ്പാടിൽ നിന്ന് അവ വളരെ വ്യത്യസ്തമാണോ അതോ വളരെ അടുത്താണോ ഡഗ്ഡെയ്ലിന്റെ മോഡലിനെ അടിസ്ഥാനമാക്കി പ്ലാസ്റ്റിക് സോണിന്റെ നീളം pi by 8 K I by sigma ys whole square എന്ന് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ശരിക്കും pi by 8 ന്റെ മൂല്യം കണക്കാക്കിയാൽ അത് 0 393 multiplied by K I by sigma ys whole square എന്ന് ചുരുങ്ങുന്നു ഇർവിന്റെ മോഡലിനെ അടിസ്ഥാനമാക്കി ഇത് 1 by pi K I by sigma ys whole square ആണ് നിങ്ങൾ ശരിക്കും 1 by pi കണക്കാക്കുമ്പോൾ ഘടകം 0 318 ആണ് ഡഗ്ഡെയ്ലിന്റെ മോഡലിൽ നിന്ന് ഇത് 0 393 ആണ് അതിനാൽ തീർച്ചയായും ഒരു താരതമ്യമുണ്ട് ഇർവിന്റെ മോഡൽ നൽകിയ പ്ലാസ്റ്റിക് സോൺ ലളിതമായ സമീപനത്തേക്കാൾ ദൈർഘ്യമേറിയതാണെങ്കിലും മറ്റൊരു രീതിശാസ്ത്രത്തിലൂടെ നമുക്ക് ലഭിച്ച ഫലം എന്തായാലും അകലെയല്ല എന്നാൽ തീർച്ചയായും ലളിതമായ മോഡൽ ശരിയല്ല നിങ്ങളുടെ സൌകര്യത്തിൽ നിന്ന് കൊണ്ട് ഒരു കർവ് cut ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല സർ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനെക്കുറിച്ചാണ് എന്റെ ചോദ്യം സർ എന്തുകൊണ്ടാണ് പ്ലെയിൻ സ്ട്രെയിനിലെ ഒരു മാതൃകയുടെ dimension മെറ്റീരിയൽ ടഫ്നെസ് പരിശോധനയെ അടിസ്ഥാനമാക്കിയുള്ളത് സർ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചോദ്യം എന്ത് കൊണ്ടാണ് പ്ലെയിൻ സ്ട്രെയിൻ K IC ടെസ്റ്റിനുള്ള മാതൃകയുടെ അളവുകൾ മെറ്റീരിയൽ toughness K IC യെ അടിസ്ഥാനമാക്കിയുള്ളത്

ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തിരികെ പോയി കാണേണ്ടി വരും ഫ്രാക്ചർ പരിശോധന എങ്ങനെ പരിണമിച്ചു എന്ന് എന്താണ് ആദ്യകാല ശ്രമങ്ങൾ എന്ന് നാം നോക്കണം ലോഹങ്ങളിൽ വെച്ചുള്ള ആദ്യകാല പരിശോധനകൾ നേർത്ത പ്ലേറ്റുകൾ ആയിരുന്നു എന്നിരുന്നാലും പ്ലേറ്റിന്റെ കനം ഫ്രാക്ചർ സ്വഭാവത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയതായി ഗവേഷകർ നിരീക്ഷിച്ചു ഫ്രാക്ചർ പുസ്തകങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗ് നടത്തണമെങ്കിൽ ക്രാക്ക് ടിപ്പിൽ പ്ലെയിൻ സ്ട്രെയിൻ അവസ്ഥ നിലനിർത്തേണ്ടതുണ്ട് അത് മാതൃകയ്ക്ക് ഒരു പ്രത്യേക കനം ആവശ്യപ്പെടുന്നു ഫ്രാക്ചർ പരിശോധനയ്ക്കുള്ള ആദ്യകാല ശ്രമങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ അവ നേർത്ത പ്ലേറ്റുകളിൽ പ്രവർത്തിച്ചു ഒടിവിന്റെ സ്വഭാവത്തിൽ പ്ലേറ്റിന്റെ കനം ശക്തമായ സ്വാധീനം ചെലുത്തുന്നത് അവർ നിരീക്ഷിച്ചു 1960 ൽ ഇർവിൻ ഓർക്കുക ഇത് ഫ്രാക്ചർ മെക്കാനിക്സ് വികസനത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളിലൊന്നാണ് കട്ടിയുള്ള ഭാഗങ്ങൾക്ക് അവയുടെ നേർത്ത എതിരാളികളേക്കാൾ ഫ്രാക്ചർ toughness ഉണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു അതിനാൽ കാരണം എന്താണെന്ന് അവർക്ക് അപ്പോൾ അറിയില്ലായിരുന്നു നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂല്യം എടുക്കേണ്ടിവരും അത് മെറ്റീരിയലിന്റെ ഒരു സ്വഭാവം ആകുന്നു എപ്പോഴാണ് അത് മെറ്റീരിയലിന്റെ സ്വഭാവമാകുന്നത് പ്ലെയിൻ സ്ട്രെയിൻ അവസ്ഥയിൽ മാത്രം നമ്മൾക്കതു അറിയാം എന്നാൽ അവബോധജന്യമായ വാദത്തെ അടിസ്ഥാനമാക്കി ഇർവിൻ plane strain ന്റെ ഫലവും thick sections ന്റെ ഫ്രാക്ചർ toughness മൂല്യങ്ങൾക്ക് പ്ലാസ്റ്റിക് സോണിന്റെ പ്രാധാന്യം കുറക്കുകയും ചെയ്തു അതാണ് അദ്ദേഹം നോക്കിയത് പിന്നീട് പരീക്ഷണാത്മക ഫലം ഇതിനെ പിന്തുണച്ചിരുന്നു നിങ്ങൾ ഈ ഗ്രാഫുകളും നോക്കി നിങ്ങൾ steel നോക്കുമ്പോൾ ഫ്രാക്ചർ toughness ഇതുപോലെ വ്യത്യാസപ്പെടുന്നു ഒരു പ്രത്യേക thickness ന് ശേഷം മാത്രമേ ഇത് സ്ഥിരമാകൂ നിങ്ങൾ പോയി അന്വേഷിക്കുകയാണെങ്കിൽ ഇതാണ് ക്രാക്ക് ടിപ്പിൽ plane strain condition ഉറപ്പിക്കുന്നത് അതിനാൽ ഇതാണ് Plane strain condition നിലനിർത്താൻ ആളുകൾ അകത്തേക്ക് പോകാനുള്ള കാരണം അതിനാൽ നിങ്ങളുടെ എല്ലാ ഡിസൈൻ കണക്കുകൂട്ടലുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ തുടക്കത്തിൽ ഇത് thickness ന്റെ function ആണെന്ന് അവർക്ക് ഒരു ധാരണയുമില്ല ഇത് thickness ന്റെ function ആണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാതൃകയുടെ thickness ൽ നിങ്ങൾ എങ്ങനെ എത്തിച്ചേരണം എന്ന് നിങ്ങൾക്ക് ഒരു യുക്തിസഹീകരണം ഉണ്ടായിരിക്കണം സർ പ്ലാസ്റ്റിക് സോൺ വലുപ്പവും ഫ്രാക്ചർ ടഫ്നെസ്സും തമ്മിലുള്ള ബന്ധം എന്താണ് നോക്കൂ ഞാൻ ഇത് ഇങ്ങനെയാക്കാം നിങ്ങൾക്ക് ഫ്രാക്ചർ toughess പരിശോധന നടത്തേണ്ടിവരുമ്പോൾ മാതൃകയുടെ വലുപ്പം എന്തായിരിക്കണം എന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിച്ചു മാതൃക കനം കണക്കാക്കാൻ നമ്മൾ പ്ലാസ്റ്റിക് സോൺ നീളം ഉപയോഗിച്ചു പ്ലാസ്റ്റിക് സോൺ length നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിലേക്ക് നോക്കി പ്ലാസ്റ്റിക് സോണിന്റെ നീളം ഇർവിൻ 1 by 3 pi multiplied by K IC divided by sigma ys whole square എന്ന് കണ്ടുപിടിച്ചു ഒപ്പം പരീക്ഷണാത്മക നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി മാതൃകയുടെ കനം ഈ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പത്തിന്റെ 25 ഇരട്ടിയെങ്കിലും ആയിരിക്കണമെന്ന് ആളുകൾ കണ്ടെത്തി അതിനാൽ നിങ്ങൾ 25 into 1 by 3 pi കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് ഏകദേശം 2 5 times K IC divided by sigma ys whole square എന്ന് ലഭിക്കും അതിനാൽ പ്ലാസ്റ്റിക് സോണിന്റെ നീളത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ കനം B നിർണ്ണയിക്കുന്നു അത് അവിടെ നിർത്തുന്നു പ്ലാസ്റ്റിക് സോൺ നീളവും ഫ്രാക്ചർ ടഫ്നെസ്സും തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല ആളുകൾ അത് നോക്കി പരീക്ഷണങ്ങളിൽ നിന്ന് അത് അത്തരം കട്ടിയുള്ളതായിരിക്കണമെന്ന് അവർ കണ്ടെത്തി പിന്നീട് അവർ പിന്നോക്കം പ്രവർത്തിക്കുകയും പ്ലെയിൻ സ്ട്രെയിനിൽ പ്ലാസ്റ്റിക് സോൺ നീളം തമ്മിലുള്ള ബന്ധം 25 മടങ്ങ് ഗുണിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കനം ലഭിക്കും അതിനാൽ ബന്ധം വരുന്നത് അങ്ങനെയാണ് പ്ലാസ്റ്റിക് സോണിന്റെ ദൈർഘ്യം അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്രാക്ചർ ടഫ്നെസ് കണക്കാക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയും ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതൃകയുടെ വലുപ്പം എന്തായിരിക്കണം എന്ന് ഉള്ളത് സർ K IC കണ്ടെത്താൻ നമ്മൾ വലിയ അളവിലുള്ള ഒരു മാതൃക ഉപയോഗിക്കുകയാണെങ്കിൽ പരീക്ഷണ ഫലങ്ങളുടെ കൃത്യത വളരെ കൂടുതലാണ് എന്നാൽ SIF നിർണ്ണയിക്കുന്നതിനുള്ള പരീക്ഷണങ്ങളിൽ വലിയ ലാറ്ററൽ അളവുകളുള്ള മാതൃക ഉപയോഗിക്കില്ല അതിനുള്ള കാരണം എന്താണ് നോക്കൂ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ട് മെറ്റീരിയൽ ടഫ്നെസ്സിലേക്ക് നിങ്ങൾ ശരിക്കും നോക്കുമ്പോൾ കാണുക ശുപാർശകൾ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മാതൃകയുടെ കനം എന്തായിരിക്കണം ഫ്രാക്ചർ ടഫ്നെസ് തിക്ക്നെസ്സിന്റെ ഒരു ഫങ്ക്ഷന് ആണെന്ന് നമ്മൾ കണ്ടു അതിനാൽ ഫ്രാക്ചർ ടഫ്നെസ് കണക്കുകൂട്ടലുകൾക്കായി നിങ്ങൾ K IC നിർണ്ണയിക്കുമ്പോൾ കോഡുകൾ ശുപാർശ ചെയ്യുന്ന കനം നിങ്ങൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ ചോദ്യം നിങ്ങൾ നൽകിയ ആപ്ലിക്കേഷൻ അനുസരിച്ചു ആ ഫ്രാക്ചർ ടഫ്നെസ് ഉപയോഗപ്രദമാണോ അല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ് ഡൊമെയ്നിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സിനേക്കാൾ പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് കണക്കാക്കുക നിങ്ങൾക്കറിയാമോ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പ്രയോഗിക്കാത്തതിനാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനു വേണ്ട ഫ്രാക്ചർ ടഫ്നെസ് എങ്ങനെ കണ്ടെത്തും നിങ്ങൾക്ക് ഒരു വലിയ കനം ഉള്ളപ്പോൾ കൃത്യത കൂടുതലാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നമ്മളുടെ നിർദ്ദിഷ്ട അപ്ലിക്കേഷനായി നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല അതിനാൽ പ്ലെയിൻ സ്ട്രെസ് സാഹചര്യത്തിനായി നമ്മൾ ഒരു പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗും കണ്ടു അതിനാൽ നിങ്ങളുടെ നിർദ്ദിഷ്ട ആപ്ലിക്കേഷനായി പ്രയോഗിക്കുന്നതിന് അത്തരം വക്രത്തിൽ നിന്നുള്ള ഡാറ്റ എടുക്കുക കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ ശരിക്കും കോംപാക്റ്റ് ആണോ ഫ്രാക്ചർ ടഫ്നെസ് പരിശോധിക്കുന്നതിനായി നമ്മൾ പരിശോധിച്ച മാതൃകകൾ എന്തൊക്കെയാണ് കോംപാക്റ്റ് ടെൻഷൻ മാതൃക നമ്മൾ കണ്ടു Three പോയിന്റ് bend മാതൃകയും നമ്മൾ കണ്ടു Three പോയിന്റ് bend specimen ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ലളിതമാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ലോഡിംഗ് fixtures പോലും വളരെ ലളിതമാണ് മറുവശത്ത് കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ ലോഡിംഗ് fixtures കുറച്ചുകൂടി സങ്കീർണമായിരിക്കണം നമ്മൾ ഒരു C സ്പെസിമെനും ഒരു ഡിസ്ക് സ്പെസിമെനും കണ്ടു ഇത് ട്യൂബുകൾക്കുള്ളതാണെന്നും ഈ ഡിസ്ക് ഷാഫ്റ്റുകൾക്ക് വേണ്ടിയാണെന്നും നമ്മൾ കണ്ടു ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷനുകളുടെ കാര്യത്തിലും ഞാൻ പരാമർശിച്ചിരുന്നുവളരെ ഉയർന്ന കടുപ്പമുള്ള വസ്തുക്കൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിലും ന്യൂട്രോൺ ബോംബാക്രമണം കാരണം ഒരു നിശ്ചിത കാലയളവിനുശേഷം മെറ്റീരിയൽ അധപതിച്ചുകൊണ്ടിരിക്കും അത് പൊട്ടുന്നതായി മാറുന്നു അതിനാൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയാണ് അവർ റിയാക്ടറിൽ നിരവധി മാതൃകകൾ അടുക്കി വെയ്ക്കുന്നു ഇടയ്ക്കിടെ മാതൃക പുറത്തെടുത്ത് മെറ്റീരിയൽ കാഠിന്യം കണ്ടെത്താൻ അത് പരീക്ഷിക്കുക റിയാക്ടറിന്റെ ജീവിതത്തിന്റെ പ്രവർത്തനമായി ഇത് എങ്ങനെ അധപതിച്ചു അതിനാൽ ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് നിങ്ങൾ കഴിയുന്നത്ര മാതൃകകൾ അടുക്കി വയ്ക്കേണ്ടതുണ്ട് അതിനാൽ കോംപാക്റ്റ് ടെൻഷൻ മാതൃക പരീക്ഷിക്കുന്നതിന് ആളുകൾ അധിക വില നൽകാൻ തയ്യാറാണ് നിങ്ങൾ ശരിക്കും താരതമ്യം ചെയ്യുകയാണെങ്കിൽthree പോയിന്റ് bend മാതൃകയുടെയും കോംപാക്റ്റ് ടെൻഷൻ മാതൃകയുടെയും ആപേക്ഷിക വലുപ്പങ്ങൾ ഇത് ഇതുപോലെയാണ് ഇത് നിങ്ങളുടെ three പോയിന്റ് bend മാതൃകയുടെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് ഒരു കോംപാക്റ്റ് ടെൻഷൻ മാതൃക നിർമ്മിക്കാൻ കഴിയും അതിനാൽ ഇത് കുറച്ച് സ്ഥലം കൈവശപ്പെടുത്താൻ പോകുന്നു നിങ്ങൾക്ക് അവ ഇടയ്ക്കിടെ പുറത്തെടുക്കാനും കഴിയും കൂടാതെ ഈ പ്രവർത്തനങ്ങളെല്ലാം റോബോട്ടുകൾ ചെയ്യേണ്ടതുണ്ട് കാരണം ഇതെല്ലാം റേഡിയോ ആക്റ്റീവ് ആയതിനാൽ ആളുകൾ ഈ ആവശ്യത്തിനായി മാത്രം റോബോട്ടുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് സുരക്ഷാ വീക്ഷണകോണിൽ നിന്നാണ് ഇത് ന്യൂക്ലിയർ വ്യവസായത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഒരു three പോയിന്റ് bend മാതൃകയ്ക്ക് അഞ്ച് മാതൃകകൾ പായ്ക്ക് ചെയ്യാൻ കഴിയും അതിനാൽ കോംപാക്റ്റ് സ്പെസിമെൻ ശരിക്കും ഇത് കോംപാക്ട് ആണെന്ന് കാണിക്കുന്നു പാരീസ് നിയമത്തിലെ C m എന്നീ മെറ്റീരിയൽ കോൺസ്റ്റന്റുകളെ നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാനാകും സ്ട്രെസ് റേഷ്യോ R ൽ നിന്ന് C ഉം m ഉം സ്വതന്ത്രമാണോ ഇപ്പോൾ നമ്മൾ തിരികെ പോയി നോക്കാം C ഉം m ഉം എന്നിവ കണക്കാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് Fatigue ലോഡിംഗ് പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ വിള്ളലിന്റെ വളർച്ച നിരീക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ specimen ൽ fatigue ലോഡുചെയ്യുമ്പോൾ നിങ്ങൾ അത് നിരീക്ഷിക്കേണ്ടതുണ്ട് അനിമേഷൻ വീണ്ടും പ്ലേ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ fatigue ലോഡ് പ്രയോഗിക്കണം വിള്ളൽ മുന്നേറുന്നതിനനുസരിച്ച് ചില സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾ NDT രീതി ഉപയോഗിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ക്രാക്ക് mouth opening ഡിസ്പ്ലേസ്മെന്റ് ഗേജ് ഇടുകയോ ചെയ്തിട്ട് a versus N ഗ്രാഫ് വികസിപ്പിക്കുകയും ചെയ്യുക അതിനാൽ ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ ഡാറ്റ സംയോജിപ്പിച്ച് log of delta K വേഴ്സസ് log da by dN തമ്മിൽ ഒരു ഗ്രാഫ് വരക്കുക ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റർസെപ്റ്റും ചരിവും കണ്ടെത്താനാകും അതിനാൽ അങ്ങനെയാണ് നിങ്ങൾ C m എന്നിവ കണ്ടെത്തുന്നത് നിങ്ങൾ പാരീസ് നിയമം നോക്കുമ്പോൾ അത് നേരായ ഭാഗം മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ടാണ് നൂതന കോഡുകളിൽ നിങ്ങൾ കണ്ടെത്തുന്നത് അവർ പാരീസ് നിയമം ഉപയോഗിക്കില്ല പാരീസ് നിയമത്തിന്റെ പരിഷ്ക്കരണത്തിൽ പരാജയം നടക്കുമ്പോൾ എന്തുസംഭവിക്കുന്നുവെന്നും ഇത് വിശദീകരിക്കുന്നു അതുകൊണ്ടാണ് ആളുകൾ സമവാക്യത്തിൽ K IC ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫോർമാൻ നിയമം ഉപയോഗിക്കുന്നത് എപ്പോൾ വിള്ളൽ നിർണായകമാകുമെന്ന് പാരീസ് നിയമം നിങ്ങളോട് പറയുന്നില്ല ഇപ്പോൾ സ്ട്രെസ് റേഷ്യോ മാറുമ്പോൾ ഗ്രാഫ് എങ്ങനെയിരിക്കും എന്നതാണ് ചോദ്യം സമ്മർദ്ദ അനുപാതത്തിന്റെ ഒരു പ്രവർത്തനമായി നമ്മൾ കണ്ടു ഗ്രാഫ് ഇടതുവശത്തേക്ക് മാറുന്നു അതിനാൽ ക്രാക്ക് initiation ൽ നിങ്ങളുടെ പരിധി മൂല്യം കുറയുന്നു അതിനാൽ C യുടെ മൂല്യം മാറുന്നുഇന്റർസെപ്റ്റ മാറുന്നു ചരിവ് കൂടുതലോ കുറവോ constant ആയി തുടരുന്നു അതിനാൽ എനിക്ക് പറയാൻ കഴിയുന്ന ഒരേയൊരു മാർഗ്ഗം ഡാറ്റ എങ്ങനെയാണ് റിപ്പോർട്ടുചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കണം ആളുകൾ ചില അനുഭവപരമായ ബന്ധം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു R അനുപാതത്തിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് മറ്റ് R അനുപാതത്തിനു എക്സ്ട്രാപോളേറ്റ് ചെയ്യാനാകുമോ എന്ന് നിങ്ങൾക്കറിയാം ആ വീക്ഷണകോണിൽ നിന്ന് നാം നോക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്ത R അനുപാതങ്ങൾക്കായുള്ള പരിശോധന നിങ്ങൾ ആവർത്തിക്കേണ്ടിവരും മറ്റൊരു വഴിയുമില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു R അനുപാതത്തിൽ നിന്ന് മറ്റ് R അനുപാതങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു അനുഭവ ബന്ധം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സമഗ്രമായ പരിശോധനകൾ നടത്തണം അതിനാൽ ഫ്രാക്ചർ വിശകലനത്തിൽ എന്തെങ്കിലും വിജയം ഉണ്ടെങ്കിൽ അത് സമ്പൂർണ്ണ മെറ്റീരിയൽ പരിശോധനക്ക് കൂടി അവകാശപ്പെട്ടതാണ് സമഗ്രമായ മെറ്റീരിയൽ പരിശോധന കൂടാതെ നിങ്ങൾക്ക് ഫ്രാക്ചർ മെക്കാനിക്സ് ഉപയോഗിക്കാൻ കഴിയില്ല R അനുപാതം ഒരു ഘടകമാണ് എന്നാൽ ഈ ഗ്രാഫിൽ നിന്ന് ചരിവ് അതേപടി നിലനിൽക്കുന്നുവെന്ന് കാണിക്കുന്നു പക്ഷേ C മാറുന്നു അതാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നാൽ ഡാറ്റ ഹാൻഡ്ബുക്ക് നിങ്ങൾ നോക്കേണ്ടതുണ്ട് അവർ ഫലങ്ങൾ എങ്ങനെ റിപ്പോർട്ടുചെയ്യുന്നുവെന്ന് നോക്കാൻ സർ ചെറിയ വിള്ളലുകളുടെയോ വളരെ നീണ്ട വിള്ളലുകളുടെയോ കാര്യത്തിൽ താരതമ്യേന പൊട്ടുന്ന വസ്തുക്കൾക്ക് പോലും LEFM മാനദണ്ഡം മേലിൽ സാധുതയില്ലാത്തത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാമോ അതെ നമ്മൾ ചെറിയ വിള്ളലുകളുടെ പ്രശ്നത്തിലേക്ക് കടക്കും നിങ്ങൾ മനസ്സിലാക്കണം അവ എങ്ങനെ സ്വാധീനിക്കും എന്ന് പരമ്പരാഗത continuum അടിസ്ഥാനമാക്കിയുള്ള LEFM അഭിസംബോധന ചെയ്യാത്ത മെറ്റീരിയലിന്റെ മൈക്രോ സ്ട്രക്ചറൽ സവിശേഷത വളരെ ചെറിയ വിള്ളലുകളെ സ്വാധീനിക്കുന്നു കാരണം അത് സ്കെയിലിനെ ആശ്രയിച്ചിരിക്കുന്നു പ്രപഞ്ചശാസ്ത്രത്തിൽ കാണുക നമ്മൾ കണ്ടെത്തുന്നത് mass പ്രപഞ്ചത്തിൽ ഒരേപോലെ വിതരണം ചെയ്യപ്പെടുന്നു ഭൂമിയും ചന്ദ്രനും ഭൂമിയും സൂര്യനും തമ്മിൽ വലിയ വിടവ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾക്ക് ഇന്റർസ്റ്റെല്ലാർ ഇടങ്ങളുണ്ട് അവിടെ ഒന്നും ഇല്ല പ്രപഞ്ചശാസ്ത്രത്തിൽ നിങ്ങൾ വളരെ നീണ്ട തോതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു continuum ആയി ഉപയോഗിക്കാനും അത് ഉപയോഗിച്ച് പലതും ചെയ്യാൻ കഴിയും നിങ്ങൾ ഷോർട്ട് ക്രാക്കിലേക്ക് പോകുന്ന നിമിഷം നിങ്ങൾക്ക് വിള്ളലിന്റെ അഗ്രമുണ്ട് ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ട് പ്ലാസ്റ്റിക് സോൺ വലുപ്പം വിള്ളലിന്റെ നീളവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് അതിനാൽ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം വിള്ളലിന്റെ നീളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തുചെയ്യും LEFM ഒന്നും ചെയ്യില്ല EPFM മാത്രമേ സഹായിക്കൂ അതിനാൽ എന്താണ് ബുദ്ധിമുട്ടുകൾ എന്ന് നോക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മൂന്ന് ഡൈമൻഷണൽ ഇഫക്റ്റുകൾ ഉണ്ടാകും ആ സ്കെയിലിലെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു ഒപ്പം വളരെ ചെറിയ വിള്ളലുകൾ വരെ ക്രാക്ക് ദൈർഘ്യത്തിന്റെ മുഴുവൻ ശ്രേണിയും പരിഹരിക്കുന്നതിനുള്ള പ്രവചന സാങ്കേതിക വിദ്യകളുടെ വികസനം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾക്കറിയാമോ നിങ്ങൾ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കംഫർട്ട് സോൺ ലഭിക്കും നീളമുള്ള വിള്ളലുകൾ നമ്മൾ മനസിലാക്കുന്നു അവ എങ്ങനെ പെരുമാറും ചില തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾക്കു കഴിയും അതിനാൽ അത് പരിമിതമായ അറിവ് മാത്രമാണ് ക്രാക്ക് ദൈർഘ്യത്തിന്റെ മുഴുവൻ ശ്രേണിയും പരിഹരിക്കാനുള്ള ഏതൊരു പ്രവചന സാങ്കേതികതയും വളരെ പ്രയാസകരമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരുപക്ഷേ LEFM regime ന് താഴെയായിരിക്കാം പക്ഷേ വിള്ളൽ വളർച്ചാ പ്രക്രിയയെ സ്വാധീനിക്കാൻ കഴിയുന്ന മൈക്രോ സ്കെയിൽ വൈവിധ്യത്തിന് മുകളിലാണ് EPFM ഫലപ്രദമായിരിക്കും കാരണം പ്ലാസ്റ്റിക് deformation ന്റെ സാന്നിധ്യമാണ് പ്രശ്നത്തിന്റെ സാരം അതിനാൽ LEFM ൽ നിന്ന് നിങ്ങൾ EPFM വിശകലനത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇനിയും ചെറിയ വിള്ളലുകൾ വിശകലനം ചെയ്യാം എന്നാൽ ഇത് 0 ൽ നിന്ന് ആരംഭിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്രോ സ്കെയിൽ വൈവിധ്യവും മറ്റും ഉണ്ട് അതിനാൽ EPFM ന്റെ ഉപയോഗം ഷോർട്ട് ക്രാക്ക് ഡിമാർക്കേഷൻ പോയിന്റ് ഒരു തുടർച്ചയായ മെക്കാനിക്സ് സമീപനത്തിന്റെ പരിധിയിലേക്ക് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ചെറിയ വിള്ളലിന് വിള്ളൽ വളർച്ചാ നിരക്ക് ഉയർന്നതാണ് അതിനാൽ ഇത് സാഹിത്യത്തിൽ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വികസിപ്പിച്ചെടുത്ത fatigue crack വളർച്ചാ സിദ്ധാന്തത്തിലെ fracture സിദ്ധാന്തങ്ങൾ ആളുകൾ കണ്ടെത്തിഅത് ചെറിയ വിള്ളലിന് ബാധകമല്ല കാരണം അതിനു ഉയർന്ന വളർച്ചാ നിരക്ക് ആണ് നിങ്ങൾക്കറിയാമോ ആളുകൾ LEFM ൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് പതിവാണ് ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിലും സമാനമായ ആശയങ്ങൾ അവർ വിപുലീകരിച്ചു ക്രാക്ക് ടിപ്പിന് മുമ്പായി പ്ലാസ്റ്റിക് സോൺ ഉണ്ടെന്ന് നമ്മൾ പരിശോധിച്ചു LEFM ൽ നമ്മൾ എങ്ങനെ പ്ലാസ്റ്റിക് സോൺ കൈകാര്യം ചെയ്തു ക്രാക്ക് ദൈർഘ്യം യഥാർത്ഥ physical നീളത്തേക്കാൾ ദൈർഘ്യമേറിയതാണെന്ന് നിങ്ങൾ കരുതുന്നു അത്തരമൊരു സമീപനം Haddad et al തുടങ്ങിയവർ മുന്നോട്ടുവച്ചു അതിനാൽ യഥാർത്ഥ ക്രാക്ക് നീളത്തിൽ ഒരു ചെറിയ സ്യൂഡോ ക്രാക്ക് നീളം ചേർക്കാൻ അവർ നിർദ്ദേശിച്ചു ആരെങ്കിലും നിർദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആളുകൾ അത് മുഖവിലയ്ക്ക് എടുക്കാറില്ല വിള്ളൽ സാഹിത്യത്തിൽ അത്തരമൊരു സമീപനം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് inclined സ്ട്രിപ്പ് yield മോഡലിന്റെ ഉപയോഗത്തിൽ ആളുകൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു ഷോർട്ട് വിള്ളലുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് finite എലമെന്റ് മോഡലുകൾ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ഈ റഫറൻസ് കുറിക്കാൻ കഴിയും ഇത് Leis Kanninen Hopper Ahmad Brock എന്നിവരാണ് 'എ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ദി ഷോർട്ട് ക്രാക്ക് പ്രോബ്ലെം ഇൻ ഫാറ്റീഗ്' മെക്കാനിക്സ് ഓഫ് ഫാറ്റീഗ് വിവിധ രീതികൾ ചർച്ച ചെയ്യുന്ന 1981 ൽ പ്രത്യക്ഷപ്പെട്ട ഒരു ASME AMD വോളിയമാണിത് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം LEFM വിശകലനം അസാധുവാകുമ്പോൾ ഒരു മുന്നറിയിപ്പും നൽകുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ചോദ്യം ചെറിയ വിള്ളലുകൾക്കും നീണ്ട വിള്ളലുകൾക്കും LEFM സാധുതയുള്ളതല്ല എന്നാണ് അത് നന്നായി മനസ്സിലാക്കാം കാരണം LEFM രീതിശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നില്ല പ്ലാസ്റ്റിക് deformation ന്റെ പങ്ക് വിലയിരുത്താൻ വേണ്ടത്ര ബുദ്ധിമാനായിരിക്കേണ്ടത് ഉപയോക്താവാണ് പ്ലാസ്റ്റിറ്റി ഇഫക്റ്റുകൾ പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് ഉപയോക്താവ് അറിഞ്ഞിരിക്കണം ലീനിയർ ഇലാസ്റ്റിക് മുതൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് സ്വഭാവം വരെ വ്യാപിക്കുന്ന ഒരു വിശകലനം സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ സമീപനം അതിനാൽ ഈ പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് പരാജയ വിലയിരുത്തൽ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ചചെയ്തു അതും ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ പരാജയ വിലയിരുത്തൽ രേഖാചിത്രത്തിന്റെ ഉപയോഗം ശുപാർശ ചെയ്യുന്നു ഈ ഡയഗ്രം എങ്ങനെ ഉത്ഭവിച്ചുവെന്നും നമ്മൾ കാണും വളരെ ചെറിയ ലോഡ് അനുപാതങ്ങൾ ഉള്ളപ്പോൾ ആളുകൾ ഇത് നോക്കിയതായി നിങ്ങൾക്കറിയാം അടിസ്ഥാനപരമായി ഇത് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഡൊമെയ്നിലാണ് ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു നമ്മൾ മുമ്പ് കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കണക്കാണിത് ഫ്രാക്ചർ മെക്കാനിക്സിൽ ആളുകൾ എങ്ങനെയാണ് സമീപിച്ചതെന്ന് ഇത് നിങ്ങൾക്ക് ഒരു വലിയ മതിപ്പ് നൽകുന്നു പരമ്പരാഗത രൂപകൽപ്പന വിശകലനത്തിൽ നമുക്കറിയാവുന്നതിൽ നിന്ന് ഈ ആശയങ്ങളിൽ ചിലത് നമ്മൾ എല്ലായ്പ്പോഴും കടമെടുക്കുന്നു പരമ്പരാഗത രൂപകൽപ്പന വിശകലനത്തിൽ നമ്മൾ കണ്ടു നിങ്ങൾക്ക് സിഗ്മ ys ഉണ്ട് അത് ഒരു ടെൻഷൻ പരിശോധനയിൽ നിന്നുള്ള yield strength ആകുന്നുഅത് സംയോജിത ലോഡിംഗിന്റെ പരാജയത്തിന് ഉപയോഗിക്കുന്നു മിക്സഡ് മോഡ് ഫ്രാക്ചറിൽ K IC മൂല്യം ഉപയോഗിച്ചതായി നമ്മൾ കണ്ടെത്തി ആളുകൾ അനുഭവപരമായ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ K IC K IIC അല്ലെങ്കിൽ K IIIC എന്നിവയും കൊണ്ടുവന്നു അതിനാൽ ആളുകൾ ആദ്യം നോക്കിയത് സ്പെസിമെനിൽ ലോഡിംഗ് 30 ശതമാനമാകുമ്പോൾ അത് പ്രധാനമായും LEFM ആണ് നിങ്ങൾക്ക് പൊട്ടുന്ന ഫ്രാക്ചർ ഉണ്ടാകും ലോഡിംഗ് മെറ്റീരിയലിന്റെ yield ശക്തിയോട് വളരെ അടുത്താണെങ്കിൽ അത് പ്ലാസ്റ്റിക് collapse ആണ് നിർണ്ണയിക്കുന്നത് അതിനാൽ LEFM നും limit വിശകലനത്തിനുമിടയിൽ നിങ്ങൾക്ക് എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് നിർദ്ദേശിച്ച ഒരു പ്രദേശമുണ്ട് അതിനാൽ ഈ പ്രദേശത്ത് നിങ്ങൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ വിശകലനത്തെ ആശ്രയിക്കണം എന്താണ് വ്യതിയാനം എന്നും നമ്മൾ പരിശോധിക്കും ഈ ഗ്രാഫ് എന്താണ് പറയുന്നതെന്ന് കാണുക എനിക്ക് ഇവിടെ ഒരു നേർരേഖയും മറ്റൊരു നേർരേഖയും കൂട്ടിമുട്ടിക്കാൻ കഴിയില്ല പരമ്പരാഗത രൂപകൽപ്പനയിൽ നിങ്ങൾ എന്താണ് ചെയ്തത് സിഗ്മ 1 സിഗ്മ 2 എന്നിവയുടെ combined loading ഉണ്ട് കൂടാതെ സിഗ്മ 1 സിഗ്മ ys ന് തുല്യമാകുമ്പോഴോ സിഗ്മ 2 സിഗ്മ ys ന് തുല്യമാകുമ്പോഴോ yielding സംഭവിക്കുമെന്നും നിങ്ങൾ പറയും നിങ്ങളുടെ ട്രെസ്ക yield മാനദണ്ഡത്തിൽ നിന്ന് ലഭിക്കുന്ന yield ലോക്കസ് ഇതാണ് ഇത് ഒരു ചതുരം പോലെയാണ് LEFM പ്ലാസ്റ്റിക് collapse എന്നിവയിലെ failure ലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഒരു ചതുരശ്ര മേഖല ഉണ്ടാകില്ല ഇത് ഒരു കർവ് നിർദ്ദേശിക്കുന്നു അതിനെക്കാൾ കുറവാണ് ഇത് ഇതാണ് മുന്നറിയിപ്പ് സിഗ്നൽ ആളുകൾ കണ്ടെത്തിയതെന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ഘടന എടുക്കുകയാണെന്ന് കരുതുക അത് brittle ഫ്രാക്ചർ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് വിശകലനം ചെയ്യുക brittle ഫ്രാക്ചർ ഇത് തൃപ്തിപ്പെടുത്തുന്നുവെന്ന് കരുതുക പ്ലാസ്റ്റിക് തകർച്ചയെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് സ്വതന്ത്രമായി വിശകലനം ചെയ്യുക ഇത് പ്ലാസ്റ്റിക് തകർച്ചയെ തൃപ്തിപ്പെടുത്തുന്നതായി നിങ്ങൾ കാണുന്നു നിങ്ങൾ പരാജയ വിലയിരുത്തൽ ഡയഗ്രം ഉപയോഗിക്കുകയാണെങ്കിൽപ്പോലും പോയിന്റ് ഈ അതിർത്തിക്ക് പുറത്തായിരിക്കാം ലോക്കസിനുള്ളിലെ പ്രദേശം സുരക്ഷിതമാണെന്ന് കണക്കാക്കുന്നു അതിനാൽ അവിടെയാണ് പരാജയ വിലയിരുത്തൽ രേഖാചിത്രത്തിന്റെ വിജയം നിങ്ങളുടെ LEFM വിശകലനവും പ്ലാസ്റ്റിക് തകർച്ചയും പരാജയപ്പെടുമ്പോൾ ഇത് ശരിക്കും വെളിപ്പെടുത്തുന്നു നിങ്ങൾക്ക് അവ വ്യക്തിഗതമായി പ്രയോഗിക്കാൻ കഴിയില്ല അതിനാൽ LEFM അന്ധമായി പ്രയോഗിക്കരുത് എന്നതാണ് ശുപാർശ നിങ്ങൾ എല്ലായ്പ്പോഴും പരാജയം വിലയിരുത്തൽ ഡയഗ്രാമിൽ വീഴുന്നു കാരണം ഇത് LEFM EPFM പരിധി വിശകലനം എന്നിവ ഉൾക്കൊള്ളുന്നു തുടക്കത്തിൽ strain hardening നെക്കുറിച്ച് ആളുകൾ വിഷമിച്ചിരുന്നില്ല ഇത് yield സ്ട്രിപ്പ് മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ അത് yield strength മൂല്യത്തിൽ നിർത്തി ഫ്ലോ സ്ട്രെസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തകർച്ചയിൽ സമ്മർദ്ദം പരിമിതപ്പെടുത്തുന്ന തരത്തിലുള്ളത് എന്തുതന്നെ ആയാലും അത് അവിടെ നിർത്തി എന്നാൽ പിന്നീട് ആളുകൾ strain hardening കണക്കിലെടുത്ത് ഇത് നീട്ടി കർവും വ്യത്യസ്തമായിരുന്നു കർവ് വിവിധ പാരാമീറ്ററുകളും നിങ്ങൾക്ക് നേടാനാകുന്ന വിവിധ വഴികളും നിർദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടു ഇത് കേവലം LEFM ൽ നിന്നുള്ള ഒരു നേർരേഖയും പ്ലാസ്റ്റിക് തകർച്ചയിൽ നിന്നുള്ള നേർരേഖയുമല്ല തന്നിരിക്കുന്ന ആപ്ലിക്കേഷനായി ഈ കർവ് നിങ്ങൾ കണ്ടെത്തണം സ്വീകാര്യമായ പ്രദേശം എന്താണെന്നും അസ്വീകാര്യമായ പ്രദേശം എന്താണെന്നും ഇത് നിർണ്ണയിക്കുന്നു അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എല്ലായ്പ്പോഴും പരാജയ വിലയിരുത്തൽ ഡയഗ്രം പ്രയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ LEFM പഠിച്ചതിനാൽ LEFM ചെയ്യരുത് നമ്മൾ സമഗ്രമായി LEFM വിശകലനം പഠിച്ചു EPFM ന്റെ അടിസ്ഥാനകാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു നമ്മൾ പരാജയം വിലയിരുത്തൽ ഡയഗ്രം നോക്കി അതിനാൽ നിങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സ് ആശയം യഥാർത്ഥ ഘടനയിൽ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ LEFM മുതൽ പ്ലാസ്റ്റിക് തകർച്ച വരെ വിശകലനം ചെയ്യണം നിങ്ങളുടെ ആശയങ്ങളുടെ പ്രയോഗത്തിന്റെ വലത് മേഖലയിലാണോ എന്ന് മാത്രം തീരുമാനിക്കുക അല്ലെങ്കിൽ ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ യഥാർത്ഥ ഡിസൈനുകളിൽ പ്രയോഗിക്കാൻ കഴിയില്ല ഷോർട്ട് ക്രാക്ക് എന്നത് അറിയപ്പെടുന്ന ഒരു പ്രശ്നമാണ് സാഹിത്യത്തിൽ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിലവിലെ സാഹിത്യം നോക്കുകയും നിങ്ങളുടെ ധാരണ മെച്ചപ്പെടുത്താൻ കഴിയുന്ന വഴികൾ കണ്ടെത്തുകയും ചെയ്യുക വിശകലനത്തിന് ഉചിതമായ സിദ്ധാന്തം സ്വീകരിക്കുക അതാണ് നിങ്ങൾ നോക്കേണ്ടത് വീണ്ടും റീക്യാപിറ്റലൈസേഷനായി നിങ്ങൾക്ക് നോക്കാനും കഴിയും അതിനാൽ പ്രാരംഭ മേഖല brittle ഫ്രാക്ചർ കവർ ചെയ്യുന്നു brittle ഫ്രാക്ചർ ഉം പ്ലാസ്റ്റിക് തകർച്ചയും ഇന്റർമീഡിയറ്റ് സോണിനെ മൂടുന്നു അവസാന സോണിൽ ലോഡ് ഫ്ലോ സ്ട്രെസിന് വളരെ അടുത്തായിരിക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് തകർച്ചയാണ് നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് ഡാറ്റ പോയിന്റുണ്ട് അതിനാൽ ഈ ഡാറ്റാ പോയിന്റ് FAD ഡയഗ്രാമിൽ കാണേണ്ടതുണ്ട് അതിനാൽ ഈ വിശകലനം പ്രത്യേകം ചെയ്യരുത് എന്നതാണ് ശുപാർശ FAD ഡയഗ്രത്തിലേക്ക് നോക്കുക LEFM നെ സ്വതന്ത്രമായി തൃപ്തിപ്പെടുത്തുന്ന ഉദാഹരണങ്ങൾ ആളുകൾ കാണിച്ചിരിക്കുന്നു ഇത് സ്വതന്ത്രമായി പ്ലാസ്റ്റിക് തകർച്ചയെ തൃപ്തിപ്പെടുത്തുന്നു പക്ഷെ FAD കർവിന് പുറത്ത് സ്ഥിതിചെയ്യുന്നതിനാൽ ഘടന സുരക്ഷിതമല്ല അതിനാൽ ആളുകൾ അത്തരം ഉദാഹരണങ്ങൾ തെളിയിച്ചു അതിൽ നിന്ന് നിങ്ങൾ അറിവ് നേടണം Composite വസ്തുക്കളിൽ ഫ്രാക്ചർ സ്വഭാവം വ്യത്യസ്തമാണോ അതെ തീർച്ചയായും അങ്ങനെ തന്നെ composite മെറ്റീരിയലിലെ ഫ്രാക്ചർ സ്വഭാവം വളരെ സങ്കീർണ്ണമാണ് ഒന്നിലധികം പരാജയ മോഡുകൾ ഉണ്ട് നിങ്ങൾ നോക്കേണ്ടത് ഫൈബർ പുറത്തെടുക്കൽ delamination ഫൈബർ ബ്രേക്കേജ് മാട്രിക്സ് ബ്രേക്കേജ് എന്നിവ പോലുള്ള സാഹിത്യത്തിലേക്ക് നോക്കുക എന്നതാണ് ഇതിനു നിരവധി വശങ്ങളുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്കറിയാമെങ്കിലും composite കളിലെ സ്ട്രെസ് ഫീൽഡ് വിശകലനം ചെയ്യുന്നതിനായി ആളുകൾ ഫോട്ടോഇലാസ്റ്റിക് വിശകലനം ഉപയോഗിച്ചു അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനാൽ നിങ്ങൾക്ക് ഫോട്ടോ ഇലാസ്റ്റിസിറ്റി ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ ഓർത്തോട്രോപിക് ഇലാസ്തികതയും ഉണ്ട് നിയന്ത്രിത ക്ലാസ് പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് results ഉണ്ട് നിങ്ങൾക്ക് matrix reinforced fibres ഉള്ളപ്പോൾ അവ എങ്ങനെ പരാജയപ്പെടും ഇതിലെ ഒരു വെല്ലുവിളി സുതാര്യമായ ഒരു മോഡൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് എന്റെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചതായി നിങ്ങൾക്കറിയാം ഈ ഗ്ലാസ് ഫൈബർ എപോക്സി റെസിൻ അല്ലെങ്കിൽ പോളിസ്റ്റർ റെസിൻ എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് സൂചികകളെ ഉചിതമായി പൊരുത്തപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് സുതാര്യമായ composite ഉണ്ടാക്കാം കൂടാതെ രണ്ട് പ്രശ്നങ്ങളും പഠിച്ചു എനിക്ക് വിള്ളൽ ഫൈബറിന് സമാന്തരമോ ഫൈബറിന് ലംബമോ ആണെങ്കിൽ വിള്ളൽ എങ്ങനെ വളരും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള സ്ട്രെസ് ഫീൽഡ് ഏതാണ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന തരത്തിലുള്ള ഐസോക്രോമാറ്റിക്സ് എന്താണ് 35 ശതമാനം വോളിയം fraction ന് ഇ ഗ്ലാസ് ഫൈബർ reinforced polyester composite നായി ഇത് ചെയ്തു വാസ്തവത്തിൽ നിങ്ങൾ composite സാഹിത്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 35 ശതമാനം വോളിയം fraction ന് സുതാര്യമായ ഒരു composite തയ്യാറാക്കുന്നത് ഒരു വെല്ലുവിളിയാണ് ഇത് കൈവരിക്കാനായി സാധിച്ചു വിവിധ ഫോട്ടോ ഓർത്തോട്രോപിക് സിദ്ധാന്തങ്ങൾ 1993 ൽ sadhana യിൽ ഒരു പേപ്പറായി പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം ഗണിതശാസ്ത്ര വിശകലനം വളരെ സങ്കീർണ്ണമാണ് L ദിശയിൽ T ദിശയിൽ LT ദിശയിൽ തുടങ്ങിയവയിൽ നിങ്ങൾ നിർണ്ണയിക്കേണ്ട മെറ്റീരിയൽ സ്ട്രെസ് ഫ്രിഞ്ച് മൂല്യം പോലും നിങ്ങൾക്കറിയാം എന്നാൽ നമ്മൾ നേടിയ ചില ഫ്രിഞ്ച് പാറ്റേണുകൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ലഭിച്ച ഫ്രിഞ്ച് പാറ്റേണുകളാണ് ഇവ ഇത് മോഡ് I ലോഡിങ്ങിനുള്ളതാണ് രണ്ട് സാഹചര്യങ്ങളിൽ ക്രാക്ക് ഫൈബറിന് സമാന്തരവും ക്രാക്ക് ഫൈബറിന് ലംബവുമാകുമ്പോൾ എനിക്ക് ഇത് വലുതാക്കി കാണിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഫൈബർ ദിശയിൽ ഫ്രിഞ്ചസ്സ് നീണ്ടിരിക്കുന്നതായി കാണുന്നു വ്യക്തമായും നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ വിള്ളൽ നേരെയല്ല മറിച്ച് ഫൈബറിനൊപ്പം പ്രചരിക്കും നിങ്ങൾക്ക് കാണാം വിള്ളൽ എങ്ങനെ കാണപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് വിള്ളൽ ഉണ്ടാകുമ്പോൾ ഫൈബറിന് സമാന്തരമായിരിക്കുമ്പോൾ ഫ്രിഞ്ച് പാറ്റേണുകൾ ഇതുപോലെയാണ് സാഹിത്യത്തിൽ ആദ്യമായി composite കൾക്കായി ഇവ ലഭിച്ചു 35 ശതമാനം വോളിയം fraction ന് ഉള്ള ഫലങ്ങൾ ഒഴികെ ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് പാറ്റേണുകൾ നിങ്ങൾ കണ്ടെത്തുന്നില്ല മോഡ് II നും ഇത് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് ഫൈബറിന് ലംബമായി ഉണ്ട് ഇത് ഫൈബറിന് സമാന്തരമാണ് നിങ്ങൾക്ക് ഫ്രിഞ്ചസ്സ് ഉണ്ട് വാസ്തവത്തിൽ ഫ്രിഞ്ച് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സമ്മർദ്ദ തീവ്രത ഘടകം കണക്കാക്കാം അതിനാൽ മോഡ് I മോഡ് II combination of മോഡ് I മോഡ് II എന്നിവക്ക് ആയി ഇത് ലഭിക്കും ഈ ചിത്രങ്ങൾ തികച്ചും നാടകീയമാണ് വിള്ളൽ ഫൈബറിന് ലംബമാകുമ്പോൾ fringes നെ ക്രാക്ക് അക്ഷത്തിൽ വലിച്ചിടുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും Fibre കൾക്ക് സമാന്തരമായി വിള്ളൽ ഉണ്ടാകുമ്പോഴാണ് ഇത് ഈ പേപ്പറിൽ നിങ്ങൾക്ക് ചില ഫലങ്ങൾ കണ്ടെത്താൻ കഴിയും ഇത് ഞാൻ തന്നെ എ യാദവ് വിജയ് എ പങ്കവാല 1996 ൽ എഞ്ചിനീയറിംഗ് ഫ്രാക്ചർ മെക്കാനിക്സിൽ പ്രത്യക്ഷപ്പെട്ടു മറ്റൊന്ന് കൂടി ഉണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം സമ്മർദ്ദ തീവ്രത ഘടക നിർണ്ണയത്തിന്റെ കാര്യത്തിൽ മെറ്റീരിയൽ പാരാമീറ്ററുകൾ ഐസോട്രോപിക് മെറ്റീരിയലുകളിൽ ഒരു പങ്കും വഹിച്ചില്ല നമ്മൾ കണ്ടെത്തിയത് composite കളുടെ കാര്യത്തിൽ മെറ്റീരിയൽ properties സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് അതിനാൽ fibre കളുടെ വോളിയം ഫ്രാക്ഷൻ SIF ന്റെ മൂല്യത്തിൽ ഒരു പങ്കു വഹിക്കുന്നു നമ്മൾ കണ്ടെത്തിയത്ഇതിന്റെ സ്വാധീനം വളരെ കുറവാണ് 1998 ൽ ജേണൽ ഓഫ് സ്ട്രെയിൻ അനാലിസിസിലെ ഒരു പ്രബന്ധമായും ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് യന്ത്ര രൂപകൽപ്പനയിൽ ഞാൻ യാദവ് പ്രൊഫസർ സേതുരാമൻ എന്നിവരായിരുന്നു രചയിതാക്കൾ അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് നിയന്ത്രിത ക്ലാസ് പ്രശ്നങ്ങൾക്കായി composite കളിൽ ഫോട്ടോഇലാസ്റ്റിസിറ്റി എങ്ങനെ പ്രയോഗിച്ചു എന്നതിന്റെ ഒരു രസം നല്കുന്നു നോക്കൂ നിങ്ങൾ composite കളിലേക്ക് പോകുന്ന നിമിഷം മുഴുവൻ പ്രശ്നവും വ്യത്യസ്തമാണ് Damage മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ആളുകൾ composite കളുടെ ഫ്രാക്ചർ മെക്കാനിക്സ് പഠിക്കുന്നതിന് കൊണ്ട് വരുന്നു അതിനാൽ നിങ്ങൾ പ്രസക്തമായ സാഹിത്യങ്ങൾ നോക്കുകയും തുടർന്ന് പഠിക്കുകയും വേണം ഞാൻ കാണിച്ചതെന്തെന്നാൽ composite കളിലെ ഒരു തരം പ്രശ്നങ്ങൾക്ക് ഫോട്ടോഇലാസ്റ്റിസിറ്റി എങ്ങനെ പ്രയോഗിക്കാമെന്നതാണ് ഇത് സമഗ്രമല്ല ഇത് സൂചിപ്പിക്കുന്നത് മാത്രമാണ് ഫ്രിഞ്ച് പാറ്റേണുകൾ എങ്ങനെ കാണപ്പെടുന്നുവെന്നും നിങ്ങൾക്ക് എങ്ങനെ മനസിലാക്കാൻ കഴിയുമെന്നും നിങ്ങൾ കാണുന്നു വിള്ളലിന്റെ കാഠിന്യം എന്താണ് തുടങ്ങിയവ ഐസോട്രോപിക് മെറ്റീരിയലിനായി വികസിപ്പിച്ച സമ്മർദ്ദ തീവ്രത ഘടകം കമ്പോസിറ്റുകളുടെ വിശകലനത്തിനായി ഉപയോഗിക്കാമെന്നും നമ്മൾ കാണിച്ചു വോളിയം ഫ്രാക്ഷന് ഒരു പങ്കുണ്ടെങ്കിലും അതിന്റെ സ്വാധീനം ചെറുതാണ് മെഷീനിങ് സമയത്തെ burr കളുടെ രൂപീകരണം ഫ്രാക്ചർ മെക്കാനിക്സിന് വിശദീകരിക്കാനാകുമോ നിങ്ങൾക്കറിയാമോ ഇത് ഒരു നല്ല ചോദ്യമാണ് നിങ്ങൾക്കറിയാമോ അതിന്റെ ഉത്തരം എനിക്കറിയില്ല എന്നതാണ് അതും ഒരു ഉത്തരം ആണ് നിങ്ങൾക്കറിയാവുന്നതിനാൽ ആളുകൾ തേയ്മാന പ്രശ്നങ്ങൾക്കു ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അതിനാൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾക്ക് ശക്തമായ ഇന്റർനെറ്റ് ഉണ്ട് ദയവായി സാഹിത്യത്തിൽ തിരയുക ഇതുമായി ബന്ധപ്പെട്ട ഒരു നല്ല പേപ്പർ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് സ്വന്തമായി വായിക്കാൻ ശ്രമിക്കുക കാരണം ആപ്ലിക്കേഷൻ അധിഷ്ഠിത മേഖലകൾ നോക്കുന്നതിന് ഈ കോഴ്സിൽ ആവശ്യമായ അടിസ്ഥാനകാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ദയവായി പേപ്പർ എന്റെ അടുക്കൽ കൊണ്ടുവരിക എനിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാനും സ്വയം പഠിക്കാനും പഠിപ്പിക്കാനും കഴിയും കേടുപാടുകൾക്കുള്ള tolerance സമീപനം എന്താണ് നോക്കൂ നമുക്ക് നോക്കാം എന്താണ് ഡാമേജ് tolerance എന്ന് ഫീൽഡ് പ്രശ്നങ്ങൾക്ക് ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് വ്യാവസായിക അന്തരീക്ഷത്തിൽ വളരെ സാധാരണമാണ് അവർ ഇതിനെ DT എന്ന് വിളിക്കുന്നു നിങ്ങൾ ഒരു വ്യവസായത്തിൽ ചേർന്നുകഴിഞ്ഞാൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഉപയോഗം DT മാത്രമാണ് ഘടനകൾക്ക് അന്തർലീനമായ flaws ഉണ്ടെന്നു നമുക്കെല്ലാവർക്കും അറിയാം ഘടനകളുടെ സുരക്ഷയ്ക്കായി ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ എങ്ങനെ നടപ്പാക്കാം അതാണ് ഡാമേജ് tolerance സമീപനം ഉൾക്കൊള്ളുന്നത് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റുകൾ ഓഫ്ഷോർ പ്ലാറ്റ്ഫോമുകൾ ബഹിരാകാശ വാഹനങ്ങൾ തുടങ്ങിയ ആധുനിക ഘടനകൾ അവ പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിലും കടുത്ത താപനിലയിലും പ്രവർത്തിക്കുന്നു അത്തരമൊരു ആവശ്യം മുൻ തലമുറകളിൽ ഇല്ലായിരുന്നുവെന്ന് കാണുക പ്രത്യേകിച്ചും ഈ തലമുറ വളരെ കഠിനമായി മുന്നോട്ട് പോവുകയാണ് അതിനാൽ നമ്മൾ മെറ്റീരിയലിനെ അങ്ങേയറ്റത്തെ ഓപ്പറേറ്റിംഗ് അവസ്ഥകളിലേക്ക് തള്ളിവിടുകയാണ് ഒപ്റ്റിമൈസേഷൻ ആവശ്യകതകൾ അത്തരം ആപ്ലിക്കേഷനുകളിൽ അവയുടെ പരിധിയോട് അടുത്ത് പ്രവർത്തിക്കാൻ ഉയർന്ന നിലവാരമുള്ള വസ്തുക്കളുടെ ഉപയോഗത്തെ പ്രേരിപ്പിച്ചുവോ എന്ന് നാം നോക്കേണ്ടതുണ്ട് ഇത് ക്രാക്ക് രൂപപ്പെടാനുള്ള സാധ്യതയും തുടർന്നുള്ള ഉപയോഗത്തിൽ ക്രാക്ക് വളർച്ചയും വർദ്ധിപ്പിച്ചു അതിനാൽ കേടുപാടുകൾ തീർക്കുന്ന സമീപനം ബുദ്ധിപരമായി ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ ആരോഗ്യ നിരീക്ഷണത്തിൽ ഘടനയിൽ ഉപയോഗിക്കുന്നു അതിനാൽ ഡാമേജ് tolerance ഈ മേഖലയിലെ ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങളുടെ പ്രായോഗിക ഉപയോഗമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ എങ്ങനെ അതിലേക്ക് പോകും Fatigue stress corrosion cracking creep എന്നിവ കാരണം വിള്ളലുകൾ വളരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനാൽ നിങ്ങൾ ഒരു ഫ്രാക്ചർ നിയന്ത്രണ പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട് ഫ്രാക്ചർ നിയന്ത്രണ പദ്ധതിയുടെ പങ്ക് എന്താണ് പരാജയപ്പെട്ട സുരക്ഷിതമായ രൂപകൽപ്പനയാണ് ഇത് നേരത്തെ നിങ്ങൾക്ക് അനന്തമായ life പോലുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾ മനസ്സിലാക്കി അനന്തമായ life പോലെ ഒന്നുമില്ല

നമ്മൾക്കു വേണ്ടത് ഘടകം പരാജയപ്പെടാൻ പോകുകയാണെങ്കിൽ അത് സുരക്ഷിതമായി പരാജയപ്പെടട്ടെ അതിനാൽ അതാണ് മികച്ചത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയും അതാണ് damage tolerance എന്നുള്ളത് ഫ്രാക്ചർ നിയന്ത്രണം നിങ്ങൾ എങ്ങനെ ചെയ്യും അവ ഗണ്യമായി വിവിധ വ്യവസായങ്ങൾക്കിടയിൽ വ്യത്യാസപ്പെടുന്നു നിങ്ങൾ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷനുകൾ നോക്കുകയാണെങ്കിൽheat എക്സ്ചേഞ്ചറുകളുള്ള ന്യൂക്ലിയർ വ്യവസായത്തിൽ ബ്രേക്ക് മാനദണ്ഡം വ്യാപകമായി ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കെമിക്കൽ പ്രോസസ്സിംഗ് പ്ലാന്റുകളുള്ള പൈപ്പിംഗ് വ്യവസായത്തിനും ഇത് വിപുലീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് മറ്റൊരു പ്രധാന ആശയവും ഉണ്ട് വിനാശകരമായ പരാജയങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ഘടനയുടെ ഒരു ഘടകത്തിന്റെ പരാജയം താങ്ങാൻ കഴിയാത്ത അപ്ലിക്കേഷനുകളിൽ multiple ലോഡ് path സമീപനം ഉപയോഗിക്കുന്നു നോക്കൂ ടിവി മത്സരങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും പ്ലേയിംഗ് കാർഡുകളൾ ഉപയോഗിച്ച് ഒരു കോട്ട പണിയാൻ ഒരു മത്സരം ഉള്ളത് നിങ്ങൾക്കറിയാം സാധ്യമായ ഏറ്റവും വലിയ കോട്ട അവർ നിർമ്മിക്കണമെന്ന് നിങ്ങൾ പോയി ഒരു കാർഡ് നീക്കംചെയ്യുക മുഴുവൻ ഘടനയും തകരും പ്രകൃതി നിങ്ങളെ എങ്ങനെ നോക്കി നിങ്ങൾക്ക് രണ്ട് വൃക്കകളുണ്ട് ഒരു വൃക്ക പരാജയപ്പെട്ടാൽ മറ്റേ വൃക്ക നിങ്ങളുടെ രക്ഷയ്ക്കെത്തും

അതിനാൽ ഒപ്റ്റിമൈസേഷൻ ആവശ്യമാണ് Essential redundancy ആവശ്യമാണ് ഒരു member പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു ഘടന രൂപകൽപ്പന ചെയ്യാൻ കഴിയില്ല മുഴുവൻ ഘടനയും തകർന്നുപോകും അതിനാൽ ഇത് multiple ലോഡ് പാത്ത് സമീപനത്തെക്കുറിച്ചാണ് ഫ്രാക്ചർ നിയന്ത്രണത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് welded ഘടനയുള്ളപ്പോൾ മനപൂർവ്വം ക്രാക്ക് അറസ്റ്ററുകൾ നൽകുക നോക്കു നമുക്ക് റിവേറ്റഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ റിവേറ്റഡ് കണക്ഷൻ തന്നെ ഫ്രാക്ചർ നിയന്ത്രണമായി പ്രവർത്തിക്കുന്നു കാരണം നിങ്ങൾക്ക് ദ്വാരങ്ങളുള്ളതിനാൽ അതിനാൽ വിള്ളൽ ഒരു ദ്വാരത്തിലേക്ക് വരുമ്പോൾ ദ്വാരം വീണ്ടും വിള്ളൽ ആരംഭിക്കുന്നതിനുള്ള കാലതാമസം പോലെ പ്രവർത്തിക്കുന്നു അത്തരം ആഡംബരം weld ചെയ്ത ഘടനകളുടെ കാര്യത്തിൽ ലഭ്യമല്ല എന്നാൽ weld ചെയ്ത ഘടനകളും സംരക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ വാന്റേജ് ലൊക്കേഷനുകളിൽ അധിക സ്റ്റിഫെനറുകൾ നൽകുന്നു അതിനാൽ നിങ്ങൾ ഊർജ്ജ പ്രകാശന നിരക്ക് കുറയ്ക്കുകയും ഫ്രാക്ചർ നിയന്ത്രണം നൽകുകയും ചെയ്യും വിള്ളൽ ഉത്ഭവിക്കുകയാണെങ്കിൽ അത് അതിന്റെ മുഴുവൻ നീളത്തിൽ പ്രചരിക്കുമെന്ന് നിങ്ങൾ പറയുന്നില്ല തുടർന്ന് ഘടകം രണ്ടായി വിഭജിച്ച് കേടുപാടുകൾ വരുത്തും കേടുപാടുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കണക്കുകൂട്ടലുകൾ ആവശ്യമാണ് നിങ്ങൾ അത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ critical flaw size കണക്കാക്കേണ്ടതുണ്ട് ഇവിടെ പ്രശ്നം വളരെ സങ്കീർണ്ണമാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഫ്രാക്ചർ മെക്കാനിക്സ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു സുരക്ഷാ ഘടകം ആവശ്യമില്ലെന്ന നിഗമനത്തിൽ എത്തരുത് കാരണം ഘടനകളെക്കുറിച്ച് എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അങ്ങനെയല്ല അവിടെ വീണ്ടും നിങ്ങൾ ഒരു സുരക്ഷാ ഘടകം കൊണ്ടുവരുന്നു നിങ്ങൾക്ക് ഒരു critical വിള്ളൽ നീളം ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾ അനുവദനീയമായ വിള്ളൽ വലുപ്പം മാത്രമേ അനുവദിക്കൂ a p കേബിൾ റോപ്പ് ways കളുടെ പരമ്പരാഗത രൂപകൽപ്പനയിൽ സുരക്ഷയുടെ ഘടകം 10 ആണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം പോലും വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഉയർന്ന factor of safety ആളുകൾ ആഗ്രഹിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കുമ്പോഴും ന്യൂക്ലിയർ ഇൻഡസ്ട്രി ആപ്ലിക്കേഷനിൽ factor of safety ക്ക് സമാനമായ ഒരു ഘടകം ഉപയോഗിക്കുന്നു അതിനാൽ factor of safety പത്ത് വരെ ഉയർന്നതാണ് ന്യൂക്ലിയർ പ്ലാന്റ് സുരക്ഷയെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയതെല്ലാം അവർ നടപ്പാക്കി ഒരേ സമയം ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സംയോജനമുണ്ടാകുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല തുടർന്ന് നിങ്ങൾ ഡിസൈൻ മെച്ചപ്പെടുത്തുക വേറെ വഴിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അനുഭവങ്ങളിലൂടെ പഠിക്കണം അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് അവിടെയാണ് ശാസ്ത്രത്തിന് സഹായിക്കാനാകുക നിങ്ങൾക്ക് ഒരു residual strength രേഖാചിത്രം ലഭിക്കണം ഇപ്പോൾ പരാജയം വിലയിരുത്തൽ ഡയഗ്രം സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു മികച്ച വിശകലനം നടത്താൻ കഴിയും അതിനാൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുവെറുതെ LEFM പ്രയോഗിക്കരുത് കാരണം നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചു അതാണ് ആരംഭ പോയിന്റ് ഈ കോഴ്സ് ഫ്രാക്ചർ മെക്കാനിക്സിനുള്ള വാതിൽ തുറക്കുന്നു ഇതൊരു ഫസ്റ്റ് ലെവൽ കോഴ്സ് മാത്രമാണ് നിങ്ങൾ ചില അടിസ്ഥാനകാര്യങ്ങൾ പഠിച്ചു പരിശീലനത്തിനായി ഈ അറിവ് പ്രയോഗിക്കുന്നതിന് നിങ്ങൾ കൂടുതൽ സാഹിത്യങ്ങൾ വായിക്കുകയും സുരക്ഷാ പരിഗണനകൾ നോക്കുകയും തുടർന്ന് അറിവ് വിപുലീകരിക്കുകയും വേണം ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രാരംഭ ന്യൂനത വലുപ്പം a i നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് ജാഗ്രതയോടെയുള്ള ഒരു വാക്കും സൂചിപ്പിച്ചിരിക്കുന്നു ലഭ്യമായ NDT ഉപകരണത്തിന്റെ ഏറ്റവും കുറഞ്ഞ കണ്ടെത്തലിന് ഇത് തുല്യമല്ല സാധാരണയായി ഇത് അല്പം കൂടുതൽ പരിസ്ഥിതിയും ഉപയോക്താവിന്റെ അനുഭവവും നിയന്ത്രിക്കുന്നു Least count മാത്രം ഒന്നും ചെയ്യില്ല നിങ്ങൾ least count ശരിയായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോക്താവിന്റെ അനുഭവവും നിങ്ങൾ നോക്കേണ്ടതുണ്ട് അതിനാൽ പ്രാരംഭ ന്യൂനത വലുപ്പത്തിന്റെ യഥാർത്ഥ മൂല്യം നോക്കുക ഞാൻ ഇതിനകം സൂചിപ്പിച്ചു നിങ്ങൾ NASGRO അല്ലെങ്കിൽ AFGROW നോക്കുകയാണെങ്കിൽ വിവിധ ആപ്ലിക്കേഷനുകൾക്കായി ശുപാർശ ചെയ്യുന്ന പ്രാരംഭ ക്രാക്ക് ദൈർഘ്യം അത് നിങ്ങൾക്ക് നൽകുന്നു ബഹിരാകാശ ഘടനയ്ക്കും EPFM ഘടനകൾക്കും വെവ്വേറെ നൽകുന്നു അതിനാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ക്രാക്ക് വളർച്ചാ മാതൃക ഉപയോഗിക്കാം നിങ്ങൾക്കറിയാമോ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തു നിരവധി ക്രാക്ക് വളർച്ചാ മോഡലുകൾ നമ്മൾ കണ്ടു അതിനാൽ അനുയോജ്യമായ ഒരു വിള്ളൽ വളർച്ചാ മാതൃക നിങ്ങൾ തിരിച്ചറിയണം അതിൽ നിന്ന് വിള്ളൽ a i മുതൽ a p വരെ വളരാൻ ആവശ്യമായ സമയം നിർണ്ണയിക്കുന്നു തുടർന്ന് നിങ്ങൾ ഇടവേളകളിൽ പരിശോധന നടത്തുന്നു നിങ്ങൾ ഈ കണക്കുകൂട്ടലുകൾ തെറ്റായി ചെയ്യുകയാണെങ്കിൽ വിള്ളൽ നിർണായകമായതിനുശേഷം നിങ്ങൾ പോയി പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം അതിനാൽ വിള്ളൽ വളർച്ചാ മാതൃക യാഥാർഥ്യമായിരിക്കണം അതിനാൽ ഇതെല്ലം പരിശീലനത്തിൽ നിന്ന് വരുന്നു Damage ടോളറൻസ് സമീപനം വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും നിങ്ങളുടെ ഫീൽഡ് അനുഭവം തീർച്ചയായും ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് residual strength രേഖാചിത്രം ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് ഒരു FAD പരാജയം വിലയിരുത്തൽ ഡയഗ്രം ലഭിക്കും നിങ്ങൾ ക്രാക്ക് ഗ്രോത്ത് ഡാറ്റ നോക്കുകയും ഇടവേളകൾ ഉചിതമായി കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ വിള്ളൽ വളർച്ചാ മാതൃക വളരെ പ്രധാനമാണ് നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു നിങ്ങൾക്ക് random ലോഡിംഗ് ലഭിക്കാൻ പോകുകയാണെങ്കിൽ ഘടനയിൽ പ്രവർത്തിക്കുന്ന ലോഡിംഗ് തരം യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തുക പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ വേണ്ടത് ശ്രദ്ധാപൂർവ്വമുള്ള ഡാറ്റ ശേഖരണവും വിശകലനവും ആണ് തുടർന്ന് പരിശോധന ഇടവേളകൾ സ്ഥാപിക്കുക കാരണം പരിശോധന ഇടവേളകൾ യാഥാർത്ഥ്യബോധമുള്ളതായിരിക്കണം അവ യാഥാർത്ഥ്യമല്ലെങ്കിൽ ഫ്രാക്ചർ മെക്കാനിക്സ് സഹായിക്കില്ല ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം പ്രയോഗിക്കണം ഇത് നിങ്ങൾക്ക് ഘട്ടങ്ങളുടെ സംഗ്രഹം നൽകുന്നു നിങ്ങൾക്കുള്ളത് നിങ്ങൾ വിള്ളൽ വളർച്ച വിശകലനം ചെയ്യണം പരിസ്ഥിതിയുടെ ഉപയോഗവും non destructive പരിശോധനയും വരുന്നു പാരീസ് നിയമം കേർണലായിരുന്നുവെന്ന് നമ്മൾ കണ്ടു അത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പ്രത്യേകം എടുക്കേണ്ടതായിരുന്നു നിങ്ങൾ DT ചെയ്യുമ്പോൾ അത് സംയോജിപ്പിക്കണം Residual strength ഇൻപുട്ടായി നിങ്ങൾ നോക്കി തുടർന്ന് കണക്കുകൂട്ടിയ component life കണ്ടെത്തുക പരിശോധന ഇടവേളകൾ സ്ഥാപിക്കുക ഘടകം നന്നാക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഘടകം മാറ്റി സ്ഥാപിക്കുന്നതിലൂടെയോ എനിക്ക് ഇത് സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ കണ്ടെത്തുക അതിനാൽ ഈ നടപടിക്രമങ്ങൾ വഴി ഘടന സുരക്ഷിതമായി പരാജയപ്പെടുമെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു അതിനാൽ അതാണ് DT യുടെ ഊന്നൽ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ മുഴുവൻ ഉദ്ദേശ്യവും damage tolerance സമീപനത്തിൽ എത്തിച്ചേരുക എന്നതാണ്